നേരത്തെയുള്ള ക്ലാസ്സുകളിൽ നമ്മൾ ചർച്ച ചെയ്തത് വിവിധ പ്ലേസ്മെന്റ് ടെക്നിക്കുകളെ കുറച്ചായിരുന്നു അവ എങ്ങനെ പ്രവർത്തിക്കുന്നു എന്നതിനേക്കാളുപരി ഇവിടെ നമ്മൾ ആരംഭിക്കുന്നത് മെൽവിൻ ബ്രെയൂരിന്റെ ഒരു അൽഗോരിതം വച്ചിട്ടാണ് ഇവിടെ നമ്മൾ ഉപയോഗിക്കുന്ന പ്ലേസ്മെന്റ് ടെക്നിക് പാർട്ടീഷനിങ് ടെക്നികിനെ മാറ്റി സ്ഥാപിക്കുന്നു സാധാരണയായി നമ്മൾ ചെയ്യുന്നത് സർക്യൂട്ട് പാർട്ടീഷനിംഗ് നടത്തുന്നു ബ്ലോക്കുകളുടെ വ്യത്യസ്ത മൊഡ്യൂളുകൾ സൃഷ്ടിക്കുന്നു തുടർന്ന് ഞങ്ങൾ ബ്ലോക്കുകൾ സ്ഥാപിക്കുന്നു എന്നാൽ ഇവിടെ അദ്ദേഹം പറയുന്നു ഒരു നെറ്റ്ലിസ്റ്റ് ഉള്ളപ്പോൾ ആവർത്തിച്ച് വിഭജനം നടത്തുന്നു ഓരോ പാർട്ടീഷനുകളുടെയും ഘട്ടം ചെറുതാണ് അതിനാൽ നമുക്ക് അത് നേരിട്ട് ഒരു സെല്ലിൽ സ്ഥാപിക്കാൻ കഴിയും അതിനാൽ പാർട്ടീഷനിങ്ങും പ്ലെയ്സ്മെന്റും ഒരുമിച്ച് പോകുന്നു അതിനാൽ പ്ലെയ്സ്മെന്റിനായി ഞങ്ങൾക്ക് ഒരു 2 ഡൈമൻഷണൽ ഏരിയ ഉണ്ടെങ്കിൽ അത് സാധാരണയായി ഒരു സമ്പൂർണ്ണ ഇഷ്ടാനുസൃത ഡിസൈൻ ശൈലി അല്ലെങ്കിൽ ഗേറ്റ് അറേ ഡിസൈൻ ശൈലിക്ക് ബാധകമാണെങ്കിൽ നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള പ്ലേസ്മെന്റ് തന്ത്രം വളരെ ഫലപ്രദമായി ഉപയോഗിക്കാൻ കഴിയും അതിനാൽ ഇത് പാർട്ടീഷനിങ് ടെക്നിക് ഉപയോഗിക്കുന്ന ഒരു പ്ലേസ്മെന്റ് രീതി ആണ് അതിനാൽ നൽകിയിരിക്കുന്ന സർക്യൂട്ട് നെറ്റ്ലിസ്റ്റ് രണ്ടോ അതിലധികമോ സബ് സർക്യൂട്ടുകളായി ആവർത്തിച്ച് അല്ലെങ്കിൽ ക്രമേണ വിഭജിക്കപ്പെട്ടിരിക്കുന്നു ഓരോ ഘട്ടത്തിലും രണ്ട് സബ് സർക്യൂട്ടുകൾ കാരണം നിങ്ങൾ ഓരോ ആവർത്തനത്തിലും 1 പാർട്ടീഷൻ 1 സ്ലൈസ് ഉപയോഗിക്കുന്നു അതിനാൽ തന്നിരിക്കുന്ന സര്കയൂട്ടിൽ ഒരു സ്ലൈസ് ഉണ്ടാക്കുക അവിടെ നിന്ന് നിങ്ങൾക്ക് 2 സർക്യൂട്ടുകൾ ലഭിക്കും അതിനാൽ ഓരോ ഘട്ടത്തിലും നിങ്ങൾ ഒരു തരം a ചെയ്യുന്നു നിങ്ങൾക്ക് ബിപാർട്ടീഷനിങ് എന്ന് പറയാം അതിനെ 2 ആയി വിഭജിക്കാം എന്നാൽ നിങ്ങൾ നിരവധി തവണ വിഭജനം ആവർത്തിക്കുന്നു നിങ്ങൾ ഒരു ഘട്ടത്തിൽ എത്തുന്നതുവരെ നിങ്ങൾ ഒരു വിഭജന ക്രമം ചെയ്തിട്ട് നിങ്ങൾ സൃഷ്ടിക്കുന്ന ഓരോ കഷണങ്ങളും നേരിട്ട് സ്ഥാപിക്കാവുന്നതാണ് അതിനാൽ പാർട്ടീഷനിംഗിന്റെ ഓരോ തലത്തിലും നിങ്ങൾ വെർട്ടിക്കലും ഹോറിസോണ്ടെലും സ്ലൈസുകൾ ഉപയോഗിക്കുന്നു അതിനാൽ ലഭ്യമായ ലെ ഔട്ട് ഏരിയ ഹോറിസോണ്ടലായും വെർട്ടിക്കൽ ആയും വിഭജിക്കപ്പെടും ഞാൻ ഉദ്ദേശിക്കുന്നത് ഇതുപോലുള്ള ഒന്നാണ് എനിക്ക് ചതുരാകൃതിയിലുള്ള ലെ ഔട്ട് ഏരിയ ഉണ്ടെന്ന് കരുതുക അതിനാൽ ഇതുപോലുള്ള ഒരു വെർട്ടിക്കൽ വിഭജനം ഉപയോഗിച്ച് ആരംഭിക്കുന്നുവെന്ന് കരുതുക ഞാൻ അതിനെ 2 കഷണങ്ങളായി വിഭജിക്കുന്നു പിന്നെ ഞാൻ ഒരു ഹോറിസോണ്ടൽ പാർട്ടീഷൻ ഉപയോഗിക്കുന്നു ഞാൻ അതിനെ 4 കഷണങ്ങളായി വിഭജിക്കുന്നു തുടർന്ന് ഞാൻ വീണ്ടും ഉപയോഗിക്കുന്നു ഇതുപോലുള്ള ഒരു വെർട്ടിക്കൽ പാർട്ടീഷൻ പറയട്ടെ അങ്ങനെ 2 കഷണങ്ങൾ കൂടി സൃഷ്ടിക്കപ്പെടുന്നു ഇതുപോലുള്ള ഒരു വെർട്ടിക്കൽ വിഭജനം വീണ്ടും പറയട്ടെ ഞാൻ സൃഷ്ടിച്ച 2 കൂടുതൽ കഷണങ്ങൾ പിന്നെ വീണ്ടും ഇതുപോലൊരു ഹോറിസോണ്ടൽ വിഭജനം ഇതുപോലൊരു ഹോറിസോണ്ടൽ വിഭജനം ഇത് ഞാൻ ആവർത്തിക്കുന്നു ഇപ്പോൾ ഈ ഹോറിസോണ്ടെലും വെർട്ടിക്കലുംമായ പാർട്ടീഷനുകളുടെ ക്രമം വ്യത്യാസപ്പെടാം അതിനാൽ അത്തരം വിഭജന തന്ത്രങ്ങൾ ഉണ്ട് അവയിൽ 2 എണ്ണം ചില ഉദാഹരണങ്ങളിലൂടെ നമ്മൾ കാണും എന്നാൽ ആശയം ഇതാണ് പാർട്ടീഷനുകൾ സൃഷ്ടിക്കുന്നതിനായി വെർട്ടിക്കൽ വും ഹോറിസോണ്ടൽ സ്ലൈസുകൾ ഉപയോഗിച്ച് ആവർത്തിച്ചുള്ള ചതുരാകൃതിയിലുള്ള സ്ഥലം നിങ്ങൾ വിഭജിക്കുന്നു അവസാനം നിങ്ങൾക്ക് ഈ പാർട്ടീഷനുകൾ ലഭിക്കും അത് നേരിട്ട് സിലിക്കൺ തറയിൽ സ്ഥാപിക്കും ഒരു ഗേറ്റ് വച്ച നിർമിച്ചിരിക്കുന്ന ഓരോ സബ്ബ് സർക്യൂട്ട്ടും ലെ ഔട്ട് ഏരിയയിൽ സ്ഥാനം കിട്ടുന്നത് വരെ ഈ പ്രക്രിയ തുടരും ഇവിടെ നിങ്ങൾക്ക് ഈ പ്രശ്നം ഗേറ്റ് അറേ പ്ലെയ്സ്മെന്റുമായി ബന്ധപ്പെടുത്താം ഒരു ഗേറ്റ് അറേയിൽ നിങ്ങൾക്ക് ഗേറ്റുകളുടെ ഒരു നിരയുണ്ട് ഇവിടെയും ഞങ്ങൾ പാർട്ടീഷനിംഗ് നടത്തി ഗേറ്റുകളിൽ എത്തുന്നു അതിനാൽ ഈ ഓരോ ഗേറ്റുകളും ഗേറ്റ് അറേയിലെ ഒരു പ്രത്യേക ഗേറ്റിൽ സ്ഥാപിക്കാവുന്നതാണ് ഇപ്പോൾ ബ്രൂയർ ഹോറിസോണ്ടെലും വെർട്ടിക്കലുംമായ കട്ടുകളുടെ നിരവധി ശ്രേണികൾ നിർദ്ദേശിച്ചിട്ടുണ്ട് ഇവയെ കട്ട് ഓറിയന്റഡ് സീക്വൻസുകൾ എന്ന് വിളിക്കുന്നു ഇപ്പോൾ ഈ കട്ടുകൾ നിർദ്ദേശിക്കപ്പെടുമ്പോൾ ഒരു പ്രധാന കാര്യം ഈ ഡയഗ്രാമിൽ കാണുക ഞാൻ ഈ സർക്യൂട്ട് നടുക്ക് മുറിക്കുകയാണെങ്കിൽ പക്ഷേ അത് അങ്ങനെയല്ല അതിനാൽ ചെയ്യുന്നത് ഇങ്ങനെയാണ് ഞാൻ 1 സ്റ്റെപ് ചിത്രീകരിക്കുന്നു നമുക്ക് ഒരു ചെറിയ ഉദാഹരണം എടുക്കാം എനിക്ക് ചില ഗേറ്റുകൾ ഉണ്ട് ഇതുപോലെ ഒരു സർക്യൂട്ട് നെറ്റ്ലിസ്റ് ഉണ്ടെന്നു കരുതുക ഈ ചിത്രത്തിൽ നോക്കിയാൽ കാണാം ഞാൻ പറഞ്ഞത് പോലെ ഒരു വെർട്ടിക്കൽ കട്ട് നടുക്ക് കാണാം എന്നാൽ ഇത് യഥാർത്ഥ നടുക്ക് അല്ല ഞാൻ എന്താ ചെയുന്നത് എന്ന് വച്ചാൽ എനിക്ക് 4 5 6 7 9 10 10 ഗേറ്റുകൾ ഉണ്ട് അതിനാൽ നാം ഉപയോഗിക്കുന്നത് കെർണിക്കാൻ ലൈൻ ബിപാർട്ടീഷനിങ് അൽഗോരിതം ആണ് ഇത് ഗേറ്റുകളുടെ നല്ല ഒരു പാർട്ടീഷൻ കിട്ടാൻ വേണ്ടി ആണ് ഏതാണ് നല്ല പാർട്ടീഷൻ എന്ന് അറിയില്ല തത്കാലം ഇതാണെന്ന് കരുതാം അതിനാൽ എനിക്ക് ഈ സൈഡിൽ 5 ഗേറ്റുകൾ ഉണ്ട് 5 എണ്ണം അപ്പുറത്തും എന്റെ പ്രധാന ഉദ്ദേശം എന്ന് വച്ചാൽ കട്ടുകളുടെ സൈസ് കുറക്കുക എന്നതാണ് അതായത് കട്ട് ചെയുന്ന ലൈനുകളുടെ എണ്ണം ഈ കേസിൽ 1 2 3 4 5 ലൈനുകളാണ് കട്ട് ചെയുന്നത് അതിനാൽ സൈസ് 5 ആണ് അതിനാൽ ഇവിടെ എപ്പോൾ വേണമെങ്കിലും ഈ വരികൾ 2 ആയി വിഭജിക്കുന്നതുപോലെ കാണിക്കുന്നു ഇത് അന്ധമായ വിഭജനമല്ല പക്ഷേ നിങ്ങൾ കട്ട് സൈസ് മിനിമൈസേഷൻ ഉപ പ്രശ്നം നോക്കി കട്ട്സൈസ് ശരിയായി ചുരുക്കുന്ന വിധത്തിൽ അത് മുറിച്ചു അതിനാൽ ഓരോ ഘട്ടത്തിലും ഈ കട്ട് ഓറിയന്റഡ് സീക്വൻസുകൾ ഓരോന്നും നിങ്ങൾ യഥാർത്ഥത്തിൽ കട്ട്സൈസ് കുറയ്ക്കാൻ ശ്രമിക്കുന്നു ഇപ്പോൾ 2 ഇതര കട്ട് സീക്വൻസുകൾ അതായത് അത് ഇവിടെ ചിത്രീകരിക്കും വാസ്തവത്തിൽ ബ്രൂവർ കുറച്ചുകൂടി ചിത്രീകരിക്കുകയും പ്രസ്താവിക്കുകയും ചെയ്തു എന്നാൽ ഞങ്ങൾ അവയിൽ 2 എണ്ണം ഉദാഹരണത്തിലൂടെ ചിത്രീകരിക്കുന്നു അതിനാൽ എന്താണ് ചെയ്യുന്നതെന്ന് നിങ്ങൾക്ക് കൃത്യമായി അറിയാം അതിനാൽ ഈ ഉദാഹരണത്തിൽ നാം നോക്കുന്നത് ബ്ലോക്ക് ലെവൽ നെറ്റ്ലിസ്റ് ആണ് ഈ ഓരോ സർക്യൂട്ട്ടും ഒരു ഗേറ്റിനെ പ്രതിനിദാനം ചെയ്യാൻ കഴിയും അല്ലെ ഇനി നമ്മൾ നോക്കുന്നത് തിക്ക് എഡ്ജുകൾ ആണ് 4 തിക്ക്എഡ്ജുകൾഉണ്ട് 5 എണ്ണത്തിന്റെ വെയ്റ്റ് 1 അവ ചില രീതിയിൽ നോക്കിയാൽ ക്രിട്ടിക്കൽ ആണ് തിൻ എഡ്ജുകളുടെ വെയ്റ്റ് 5 ആണ് അതിനാൽ ഒരു കട്ട് ഉണ്ടാക്കി കഴിഞ്ഞാൽ അതിന്റെ സൈസ് കണ്ടുപിടിക്കണം ആദ്യത്തെ രീതി എന്ന് പറയുന്നത് ക്വാഡ്രാച്ചേർ മിൻക്കട്ട് പ്ലേസ്മെന്റ് രീതി ആണ് ഇവിടെ ലെ ഔട്ടിനെ 2 കട്ട് ലൈനുകൾ ഉപയോഗിച്ചു 4 ഭാഗങ്ങൾ ആക്കുന്നു 1 വെർട്ടിക്കലും 1 ഹൊറിസോണ്ടലും 2 ഉം ഒരേ മധ്യഭാഗത്തൂടെ പാസ് ചെയുന്നു ഞാൻ പറഞ്ഞത് പോലെ കട്ട് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് കട്ട് സൈസ് മിനിമൈസേഷന് വേണ്ടി കെർണിങ്ങ്ഹാം ലൈൻ അൽഗോരിതം ഉപയോഗിക്കാം ഇപ്പോൾ ഈ വിഭജന നടപടിക്രമം ഓരോ പാദത്തിലും ആവർത്തിക്കുന്നു ഈ 2 വരികൾക്കുശേഷം നിങ്ങൾ മുഴുവൻ ലേഔട്ട് 4 കഷണങ്ങളായി വിഭജിച്ചു ഇപ്പോൾ ഈ 4 കഷണങ്ങളിൽ ഓരോന്നും നിങ്ങൾ വീണ്ടും വെർട്ടിക്കലും ഹോറിസോണ്ടെലും സ്ലൈസ്സുകൾക്കു വിധേയമാണ് അതിനാൽ ഓരോ ചെറിയ കഷണങ്ങളും ആവശ്യമുള്ള വലുപ്പമുള്ളതുവരെ നിങ്ങൾ ആവർത്തിക്കുന്നു അതിനാൽ നമുക്ക് ഒരു ഉദാഹരണത്തിലൂടെ നോക്കാം ഇതായിരുന്നു ബ്ലോക്ക് ലെവൽ നെറ്റിലിസ്റ്റിന്റെ ഉദാഹരണം ഇവിടെ തുടങ്ങാം ഞാൻ പരിഹാരങ്ങൾ മാത്രമേ കാണിക്കുന്നുള്ളു ഈ ഡോട്ടഡ് ലൈൻ എന്താണെന്നു വച്ചാൽ ഞാൻ ഒരു വെർട്ടിക്കൽ കട്ട് ഇൽ ആണ് തുടങ്ങുന്നത് കേരനിങ്ങാൻ ലൈൻ അൽഗോരിതം ഉപയോഗിക്കുക ആണെങ്കിൽ ഇത്രയ്ക്കും ഏറ്റവും നല്ല വെർട്ടിക്കൽ കട്ട് നെറ്റ്ലിസ്റ് നെ 2 ഭാഗങ്ങൾ ആക്കും ഈ ഭാഗങ്ങളെ ആണ് 2 പിങ്ക് റെക്ടന്ഗലുകൾ ഉപയോഗിച്ചു കാണിച്ചിരിക്കുന്നത് അതിനാൽ ഞാൻ 2 നെറ്റിലിസ്റ്റുകളെ 2 പാർട്ടീഷനുകൾ ആക്കി കഴിഞ്ഞു ഹൊറിസോണ്ടൽ കട്ട് ചെയ്ത അത് എല്ലാ പാർട്ടീഷൻ കളിലും കർണി ഹാം ലിൻ അൽഗോരിതം ഉപയോഗിക്കാം ഈ കട്ട് ആയിരിക്കും അതും ഏറ്റവും നല്ല കട്ട് ഇതിനുശേഷംവിഭജനം നടത്തും എന്നാൽ നിങ്ങൾ നേരത്തെ തന്നെ വിഭജനം നടത്തിയിട്ടുണ്ട് അതിനെ ആണ് നമ്മള് പിങ്ക് ദീർഘചതുരം കൊണ്ട് കാണിച്ചിരിക്കുന്നത് അതിനാൽ എന്നാൽ വീണ്ടും ഇടതുഭാഗത്തുള്ള ഉള്ള ഒരു വെർട്ടിക്കൽ കട്ടിൽ തുടങ്ങാം രണ്ട് ദീർഘ ചതുര ബ്ലോക്കുകളും രണ്ടായി വിഭജിക്കാം പുതിയ കട്ടുകൾ ഇങ്ങനെ ആണെന്ന് കരുതാം ഉണ്ടായ 2 പാർട്ടീഷൻ ഉകൾ ഇതാണ് m i e a എന്നിവപോലെ ഇനി ഒരു വെർട്ടിക്കൽ കട്ട് വലതു സൈഡിൽ ഉണ്ടാക്കാം നാം അപ്പോൾ ഇപ്പോൾ രണ്ട് ബ്ലോക്കുകൾ ഒരേപോലെ വിഭജിക്കപ്പെടുന്നു അത് ഇങ്ങനെയാണ് അതു പോലെ ഹൊറിസോണ്ടൽ കട്ട് ഈ ദീർഘ ചതുരത്തിന് അതിനെ നാലായി ആയി വിഭജിക്കാൻ വേണ്ടി വേണ്ടി മുകളിലും താഴെയും ചെയ്യാം അങ്ങനെ അവസാനം നമുക്ക് 16 ദീർഘ ചതുരങ്ങൾ ലഭിക്കും ഓരോന്നിലും ഓരോ ഗേറ്റ് അഥവാ നോഡ്ഡ് ഇതാണ് ഞാൻ ഉദ്ദേശിച്ച അവസാന അവസ്ഥ ഇപ്പോൾ നിങ്ങൾക്ക് കാണാം ആദ്യമേ എൻറെ ഗ്രാഫ് ഒരു അപാകത ആയിരുന്നു എന്നാൽ ഇത് കഴിഞ്ഞപ്പോൾ എനിക്കിവിടെ n കിട്ടി ഇവിടെ b കിട്ടി c ഇവിടെ കിട്ടി g ഇവിടെ കിട്ടിഎന്നാൽ ആദ്യമേ b ഇവിടെ ആയിരുന്നുc ഇവിടെയും എന്നാൽ ഇവയെല്ലാം കട്ടുകൾ ഓരോ സ്റ്റപ്പിലും കുറയുന്ന രീതിയിലേക്ക് ഉള്ള ഒരു സ്ഥാനത്തേക്ക് എത്തിച്ചേർന്നു കാരണം ഇവിടെയുള്ള c ഈ സ്റ്റെപ്പിൽ ഇവിടെ എത്തി വീണ്ടും ഈ സ്റ്റെപ്പിൽ ഇവിടെ എത്തി പിന്നെ അവിടെ തുടർന്നു അതിനാൽ ഞാനിവിടെ ഗേറ്റുകൾ അന്ധമായി ആയി നീക്കുക അല്ല ചെയ്തത് പകരം അവയുടെ സ്ഥാനം മാറ്റി അങ്ങനെ എനിക്ക് ശരിയായ സ്ഥാനം കണ്ടുപിടിക്കാൻ കഴിഞ്ഞു ഇതാണ് ആദ്യത്തെ രീതി ഇനി രണ്ടാമത്തെ രീതി എന്നത് വ റെക്കസിവ് ബിപാർട്ടീഷനിങ് മിൻ കട്ട് പ്ലേസ്മെന്റ് ആണ് ഇവിടെയും യും നമ്മൾ കാണുന്ന രീതി സമാനമാണ് എന്നാൽ കട്ട ലൈനുകളുടെ ക്രമമാണ് വ്യത്യസ്തം അത് ഞാനൊരു ഉദാഹരണം വഴി കാണിക്കാം ഇതും ഹൊറിസോണ്ടൽ വെർട്ടിക്കൽ ലൈനുകൾvertical horizontal ഉപയോഗിച്ചുള്ള ഉള്ള റെക്കസിവ് വിഭജന ആന രീതിയാണ് ഞാൻ അതേ ഉദാഹരണമെടുക്കാം ഞാൻ രണ്ട് ദീർഘ ചതുരങ്ങൾ കിട്ടുന്ന വെർട്ടിക്കൽ കട്ടൽ നിന്നു തുടങ്ങാം എന്നാൽ ലേഔട്ട് മുഴുവൻ കട്ട് ചെയ്യുന്നതിന് പകരം ഞാൻ രു ഒരു ഹബ്ബ് മാത്രമേ കട്ട് ചെയ്യുന്നുള്ളൂ അതിനാൽ ഞാൻ ഇത് കട്ട് ചെയ്തു ഇതു എനിക്ക് കിട്ടി ഇനി ഞാൻ ഞാൻ വലതു ഭാഗത്തിലെ രണ്ടായി കട്ട് ചെയ്തു എനിക്ക് കിട്ടി ഇനി നാലിൽ ഒന്നിനെകട്ട് ചെയ്തു പിന്നീട് ഇത് കട്ട് ചെയ്യുന്നു പിന്നീട് ഞാൻ ഇത് കട്ട് ചെയ്യുന്നു അവസാനം ഞാനിവിടെ ഈ ചിത്രം കാണിക്കുന്നു ഞാൻ ഇത് കട്ട് ചെയ്തു ഇതു ഇത് കട്ട് ചെയ്തു അങ്ങനെ മൊത്തം 8 കട്ടുകൾ അവസാനം എനിക്കൊരു ഒരു പാർട്ടീഷൻ കിട്ടി ഇപ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കുക നമ്മുടെ പഴയ ഡിസൈൻ ലേക്ക് പോകുമ്പോൾ നമുക്ക് കാണാൻ കഴിയും ഇതാണ് നമ്മുടെ ഫൈനൽ പാർട്ടീഷൻ എന്നുള്ളത് അത് ഒരു നല്ല പാർട്ടീഷൻ അല്ല എന്ന് നമുക്കറിയാം കാരണം എല്ലാ വയറുകളും N മുതൽ O വരെയുംO മുതൽ P വരെയുംJ മുതൽ K വരെയും കുറെ വയറുകൾ ഉണ്ട് എല്ലാം ഒരുപാട് വലുതുമാണ് അപ്പോൾ നമ്മൾ വയറിൻറെനീളം മൻഹാട്ടൻ ദൂരം വച്ചിട്ട് അളവ് നോക്കുകയാണെങ്കിൽ എങ്കിൽ നമുക്ക് അറിയാൻ പറ്റും ഇപ്പോൾ കിട്ടിയത് നേരത്തെ കിട്ടിയതിനേക്കാൾ മോശമാണ് ആണ് 2 അല്ലെങ്കിൽ 3 കണക്ഷനുകൾ ഒഴികെ കണക്ഷനുകൾ വളരെ പ്രാദേശികവൽക്കരിക്കപ്പെട്ടതായി നിങ്ങൾ ഇവിടെ കാണുന്നു അതിനാൽ അവരെല്ലാവരും അയൽക്കാരാണ് അതിനാൽ ഈ രീതി മറ്റൊന്നിനേക്കാൾ മികച്ച പരിഹാരം നൽകുന്നു പക്ഷേ ഇത് യാദൃശ്ചികമായി സംഭവിച്ചതാണ് ഞാൻ നിങ്ങൾക്ക് നൽകുന്ന ഏത് നെറ്റ്ലിസ്റ്റിനും ഈ രീതി നിങ്ങൾക്ക് മറ്റേതിനേക്കാൾ മികച്ച പരിഹാരം നൽകുമെന്ന് പറയാൻ കഴിയില്ല അതിനാൽ ബ്രൂയർ ഇത്തരത്തിലുള്ള 4 അല്ലെങ്കിൽ 5 കട്ട് നിർദ്ദേശിച്ചു നിങ്ങൾക്ക് അവ പ്രയോഗിക്കുകയും അവയിൽ ഏതാണ് മികച്ച ഫലം നൽകുന്നതെന്ന് കാണുകയും മികച്ചത് തിരഞ്ഞെടുക്കുകയും ചെയ്യാം ഇതാണ് അടിസ്ഥാന ആശയം ശരി ഇപ്പോൾ പാർട്ടീഷനിംഗ് പ്ലേസ്മെന്റ് അൽഗോരിതവുമായി ബന്ധപ്പെട്ട ഒരു പ്രശ്നമുണ്ട് ടെർമിനൽ പ്രചരണം എന്ന പ്രക്രിയ ഉപയോഗിച്ച് ഇത് പരിഹരിക്കാനാകും അതിനാൽ ഈ സെഷൻ ഒരു ലളിതമായ ഉദാഹരണത്തിലൂടെ ചിത്രീകരിച്ചിരിക്കുന്നു ആശയം ഇതുപോലെയാണ് പാർട്ടീഷനിംഗ് അൽഗോരിതത്തിന്റെ നേരിട്ടുള്ള ഉപയോഗത്തിലൂടെ നെറ്റ് ദൈർഘ്യം വർദ്ധിപ്പിക്കാൻ കഴിയും ആദ്യ രീതി ഞങ്ങളെ കാണിച്ചതുപോലെ ഇത് ചില മേഖലകളിലെ ചാനലുകളിലെ തിരക്ക് വർദ്ധിപ്പിക്കും ധാരാളം ലൈനുകൾ ഉണ്ടാകും ഇത് ആദ്യ രീതിയിലും കണ്ടു അതിനാൽ ഇത് ഒഴിവാക്കാൻ ടെർമിനൽ പ്രൊപ്പഗേഷൻ എന്ന ഒരു രീതി ഉപയോഗിക്കുന്നു അത് ഞാൻ ഒരു ഉദാഹരണത്തിലൂടെ ചിത്രീകരിക്കും അവിടെ ഡമ്മി ടെർമിനൽ എന്ന ആശയം വിഭജന അതിർത്തിയിലേക്ക് പ്രചരിപ്പിക്കപ്പെടുന്നു അതിനാൽ ഞാൻ ഉദാഹരണത്തിലൂടെ വിശദീകരിക്കും അപ്പോൾ നിങ്ങൾക്കത് മനസ്സിലാകും വ്യക്തമാണോ നമുക്ക് ഇതുപോലൊരു ഉദാഹരണം എടുക്കാം ഇവ വളരെ ലളിതമായ ഉദാഹരണമാണ് ഈ A B എന്നിവ 2 ബ്ലോക്കുകൾ അവ ബന്ധിപ്പിച്ചിരിക്കുന്നു അതിനാൽ ആദ്യ രീതിയിലെന്നപോലെ ലളിതമായ പാർട്ടീഷനിംഗ് അടിസ്ഥാനമാക്കിയുള്ള ഹ്യൂറിസ്റ്റിക് ഞാൻ ഉപയോഗിക്കുകയാണെങ്കിൽ അതിനാൽ ഞാൻ മറ്റ് ബ്ലോക്കുകൾ വിഭജിക്കാൻ പോകുന്നു ഞാൻ കാണിക്കുന്നില്ല ഞാൻ A B എന്നിവ മാത്രമേ കാണിക്കുന്നുള്ളൂ അതിനാൽ നിങ്ങൾ പാർട്ടീഷനിംഗ് നടത്തുമ്പോൾ A ഇവിടെ ഇറങ്ങുകയും B അവിടെ ഇറങ്ങുകയും ചെയ്യും അതിനാൽ A B എന്നിവ ബന്ധിപ്പിക്കുന്നത് ഒരു നീണ്ട ഇന്റർ കണക്ഷൻ ലൈൻ ഉൾക്കൊള്ളുന്നു ഇത് ഒരു നീണ്ട കാലതാമസം എന്നാണ് ടെർമിനൽ പ്രൊപ്പഗേഷൻഇതുപോലെയാണ്നമ്മൾ ലേഔട്ട് നെ പാർട്ടീഷൻ ഉപയോഗിച്ച് വിഭജിക്കുക യാണെങ്കിൽ ഇവിടെ നോക്കുക പാർട്ടീഷൻ ചെയ്യുമ്പോൾ ഇപ്പോൾ നിങ്ങൾക്ക് കാണാം ഈ വയറിനെ കട്ട് ചെയ്യുന്നു അപ്പോൾ എന്താ ചെയ്യുക നമ്മൾ ഒരു ഡമ്മി ടെർമിനൽ നെ പാർട്ടീഷൻ ജംഗ്ഷനിൽ വയ്ക്കുന്നു അതിനാൽ നിങ്ങൾ 2 പാർട്ടീഷനുകൾ പുറത്തെടുക്കുമ്പോൾ ഈ ഡമ്മി ജംഗ്ഷൻ അതിന്റെ 2 കോപ്പികൾ ഉണ്ടാകും എന്നാൽ നിങ്ങൾ ഒരു കാര്യം ഓർക്കുന്നു എന്നാൽ ഈ 2 ഡമ്മി ജംഗ്ഷനുകൾ യഥാർത്ഥത്തിൽ ഒരേ നെറ്റിനെ പ്രതിനിധീകരിക്കുന്നു അതിനാൽ നിങ്ങൾ മറ്റ് ബ്ലോക്കുകൾ നീക്കുമ്പോഴോ മുറിക്കുമ്പോഴോ ചെലവ് കണക്കാക്കുമ്പോൾ അതിനാൽ നിങ്ങൾ ഈ ഡമ്മി ജംഗ്ഷനുകൾ വളരെ ദൂരത്തേക്ക് മാറ്റുകയാണെങ്കിൽ ആ വിലയും കണക്കിലെടുക്കും അതിനാൽ നിങ്ങൾക് A അല്ലെങ്കിൽ B യെ ഒരുപാട് ദൂരേക്ക് നീക്കാൻ ആകില്ല ഈ ഡമ്മി വേരിയബിൽ ഇപ്പോഴും അടുത്തിരിക്കുംഅതിനാൽ A ഉം B ഉം അടുത്തിരിക്കും ഇത് ഞാൻ ഒരു ചെറിയ ചിത്രീകരണം ആണ് തന്നത് എന്നാൽ യഥാർത്ഥത്തിൽ ഒരു പ്രായോഗിക സാഹചര്യത്തിൽ ടെർമിനൽ പ്രൊപഗേഷൻ പ്രക്രിയ വളരെ സങ്കീർണ്ണമാണ് കാരണം നെറ്റ് എന്ന് പറയുന്നത് ഒരുപാട് വലുതായിരിക്കും അതിൽ ഒരുപാട് കണക്ഷൻ ലൈനുകളും ബ്ലോക്കുകളും ഡമ്മി ടെര്മിനലുകളും കാണും അതിനാൽ ഇവിടെ ധാരാളം ഹ്യൂറിസ്റ്റിക്സ് ഉപയോഗിക്കുന്നു അതിനാൽ നമ്മൾ ഇതിലും എളുപ്പമായ ഒരു കോൺസ്ട്രക്റ്റീവ് പ്ലേസ്മെന്റ് അൽഗോരിതം ആണ് ഇനി നോക്കുന്നത് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞത് പോലെ ഫോഴ്സ് ഡിറക്ടഡ് പ്ലേസ്മെന്റ് അൽഗോരിതം കോൺസ്ട്രക്റ്റീവ് രീതിയിൽ ഉപയോഗിക്കാം അവിടെ ഒരു സമയത് ഒരു ബ്ലോക്ക് വെക്കാം ൦ ഫോഴ്സ് സ്ഥാനം കണ്ടുപിടിക്കാം എന്നിട് അവിടെ സ്ഥാപിക്കാം അങ്ങനെ ക്ലസ്റ്റർസ് ഉണ്ടാക്കുകയും പാർട്ടീഷനുകൾ അങ്ങനെ വലുതാവുകയും ചെയ്യും ഇതിലും എളുപ്പമായ ഒരു രീതിയാണ് ക്ലസ്റ്റർ ഗ്രോത് അൽഗോരിതം ഇവിടെ നമ്മൾ ഉപയോഗിക്കുന്നത് ബോട്ടം അപ്പ് രീതിയാണ് അതിനാൽ എന്താ ചെയ്യണ്ടത് നമ്മുക്ക് ഒരു ഭാഗീക ലേഔട്ട് ഉണ്ടെന്നു കരുതുക കുറച്ച ശതമാനം ബ്ലോക്കുകൾ വച്ചിട്ടുണ്ട് ഇനിയും കുറച്ച കുടി വെക്കണം ഇതെങ്ങനെ ആണ് ചെയ്യുന്നത് എന്ന് വച്ചാൽ ആദ്യമേ ഒരു ബ്ലോക്ക് വെക്കും അതിനെ സീഡ് എന്ന് കരുതാം പിന്നീട് അതിനടുത്തുള്ള കൂടുതൽ ബ്ലോക്കുകൾ എടുത്ത് അതിനോട് ചേർത്ത് വച്ച പാർട്ടീഷനുകൾ ഉണ്ടാക്കും ഉദാഹരണത്തിന് ഒരു നെറ്റിലിസ്റ് ഉണ്ടെന്നു കരുതുക അതിൽ 6 നോഡുകൾ ഉണ്ട് അതിന്റെ കണക്ഷൻ വെയ്റ്റുകൾ ഇതാണെന്നു കരുതുക നമുക്ക് ഇതിനെ A B C D E F എന്ന് വിളിക്കാം എനിക്കൊരു പാർട്ടീഷൻ ഉണ്ടെന്നു കരുതുക അവിടെ ഞാൻ A D എന്നിവ വച്ചിരിക്കുന്നു ഇനി ബാക്കി ഉള്ളവയിൽ നിന്നും അവരുടെ കണക്റ്റിവിറ്റി യെ ആശ്രയിച്ചു ഓരോന്നായി വക്കുന്നു B ആണ് ശക്തമായി കണക്ട് ചെയ്തിരിക്കുന്നത് അതിനാൽ അടുത്ത സ്റ്റെപ്പിൽ B10 വെക്കാം അടുത്ത സ്റ്റെപ്പിൽ സി വെക്കാം കാരണം അത് 6 8 എന്നിവയുമായി ശക്തമായി കണക്ട് ചെയ്തിരിക്കുന്നു ഇവിടെ ഞാൻ ഒരെണ്ണം വെട്ടു പോയി 3 ഇത് 3 ആണ് അതിനാൽ ഇപ്പോൾ എന്റെ പാർട്ടീഷൻ വലുപ്പ പരിമിതി 4 ആണെങ്കിൽ ഇവിടെ നിർത്താം അതിനാൽ A B C D ഈ 4 ഇതിനകം ഒരു പാർട്ടീഷനിൽ വെച്ചിരിക്കുന്നു ഇപ്പോൾ ഞാൻ മറ്റൊന്നിനായി ആവർത്തിക്കുന്നു നിങ്ങൾ ആവർത്തിക്കുന്ന മറ്റ് വെർട്ടിസ്റുകൾ ഉണ്ടാകാം നിങ്ങൾ 7 പാർട്ടീഷൻ നിർമ്മിക്കാൻ ശ്രമിക്കുക അതിനാൽ ഓരോ പാർട്ടീഷനും നിങ്ങൾക്ക് സ്ഥാപിക്കാവുന്ന പരമാവധി വെർട്ടിസ്റുകൾ പരിധി ഉണ്ടായിരിക്കാം നിങ്ങൾ അത് ചെയ്യുക തുടർന്ന് നിങ്ങൾ അടുത്ത പാർട്ടീഷനിലേക്ക് പോകുക അതിനാൽ ഇത് നിങ്ങൾ ഒരു പ്രാരംഭ പോയിന്റിൽ ആരംഭിക്കുന്ന ഒരു ക്ലസ്റ്റർ പോലെ ക്ലസ്റ്റർ അനുവദനീയമായ പരമാവധി വലുപ്പത്തിലേക്ക് വളർത്തുന്നു അതിനാൽ നിങ്ങൾ ഇത് ചെയ്തുകഴിഞ്ഞാൽ നിങ്ങൾ ബ്ലോക്കുകളുടെ സ്ഥാനത്ത് പാർട്ടീഷനുകൾ സൃഷ്ടിക്കുന്ന രീതിയിൽ അടുത്ത ക്ലസ്റ്ററിലേക്ക് നീങ്ങുന്നു അതിനാൽ ഇത്തരത്തിലുള്ള ക്ലസ്റ്റർ വളർച്ചാ അൽഗോരിതങ്ങൾ ഉപയോഗിച്ച് നിർമ്മിച്ച ലേ ഔട്ട് സാധാരണയായി നല്ലതല്ല കാരണം ഇത് ഇന്റർ കണക്ഷൻ വിശദാംശങ്ങൾ അതായത് കൃത്യമായി എങ്ങനെ പരസ്പരം ബന്ധിപ്പിച്ചിരിക്കുന്നു കണക്ഷന്റെ ദൈർഘ്യം എന്താണ് എന്നിങ്ങനെഉള്ള കാര്യങ്ങൾ കണക്കിലെടുക്കുന്നില്ല പകരം കണക്ഷനുകളുടെ എണ്ണം മാത്രം കണക്കിലെടുക്കുന്നു എന്നാൽ ഈ രീതിക്ക് ചില യൂട്ടിലിറ്റി ഉണ്ട് ഇത് പ്രാരംഭ പ്ലെയ്സ്മെന്റ് സൃഷ്ടിക്കുന്നതിന് ഉപയോഗപ്രദമാകും സിമുലേറ്റഡ് അനിയലിംഗ് പോലുള്ള ഇറ്ററേറ്റിവ് ഇമ്പ്രൂവ്മെൻറ് അൽഗോരിതങ്ങളിൽ ഇത് ഉപയോഗിക്കാൻ കഴിയും സിമുലേറ്റഡ് അനിയലിംഗിനായി ഞങ്ങൾ ഒരു പ്രാരംഭ പ്ലെയ്സ്മെന്റ് ഉപയോഗിച്ച് ആരംഭിക്കുന്നു ഇപ്പോൾ നമുക്ക് ആ പ്രാരംഭ പ്ലെയ്സ്മെന്റ് സൃഷ്ടിക്കാൻ വളരെ വേഗതയുള്ള ഈ ക്ലസ്റ്റർ വളർച്ചാ അൽഗോരിതം ഉപയോഗിക്കാം അതിനാൽ പ്രാരംഭ പ്ലെയ്സ്മെന്റ് തികച്ചും ക്രമരഹിതമായി സൃഷ്ടിക്കുന്നതിനുപകരം ന്യായമായ നല്ല പ്ലെയ്സ്മെന്റ് സൃഷ്ടിക്കുന്നതിന് ഞങ്ങൾ കുറച്ച് ബുദ്ധി ഉപയോഗിക്കുന്നു തുടർന്ന് ഞങ്ങൾ അത് അനുകരിച്ച അനിയലിംഗ് ടോണിന് നൽകുന്നു അതിനാൽ അത് മെച്ചപ്പെടുത്താൻ കഴിയും അതിനാൽ ഇതാണ് ആശയം ക്ലസ്റ്റർ വളർച്ചാ അൽഗോരിതത്തിന്റെ സ്യൂഡോ കോഡാണിത് B സ്ഥാപിക്കുന്ന ബ്ലോക്കുകളുടെ കൂട്ടത്തെ സൂചിപ്പിക്കുന്നു നിങ്ങൾ ബിയിൽ നിന്ന് സീഡ് എന്ന് വിളിക്കുന്ന ഒരു ബ്ലോക്ക് S തിരഞ്ഞെടുക്കുക കുറച്ച് ഹ്യൂറിസ്റ്റിക് ഉണ്ടായിരിക്കാം നിങ്ങളുടെ സീഡായി കഴിയുന്ന പരമാവധി ബന്ധിപ്പിച്ചിട്ടുള്ള ബ്ലോക്ക് നിങ്ങൾ തിരഞ്ഞെടുക്കുന്നു നിങ്ങൾ ഒരു സ്ഥലം വയ്ക്കുക B യിൽ നിന്ന് S നീക്കം ചെയ്യുക ഇത് നിങ്ങൾ എല്ലാം പൂർത്തിയാക്കുന്നതുപോലെയാണ് പക്ഷേ ഇവിടെ കാണിക്കാത്തത് ഞാൻ പറഞ്ഞതുപോലെ മറ്റൊരു നിയന്ത്രണമുണ്ടാകാം അതിനാൽ ഈ ഓരോ ക്ലസ്റ്ററുകൾക്കും പരമാവധി വലുപ്പം ഉണ്ടായിരിക്കാം അതിനാൽ പരമാവധി വലുപ്പം എത്തുമ്പോൾ നിങ്ങൾക്ക് ആരംഭിക്കാനും അടുത്ത ക്ലസ്റ്ററിനായി തിരഞ്ഞെടുക്കപ്പെട്ട സീഡ് ആരംഭിക്കാനും കഴിയും അതിനാൽ ഈ രീതിയിൽ C1 C2 C3 എന്നിവയിൽ നിരവധി ക്ലസ്റ്ററുകൾ രൂപപ്പെടാം ഇപ്പോൾ അവസാനമായി പ്രകടനത്തെ അടിസ്ഥാനമാക്കിയുള്ള പ്ലെയ്സ്മെന്റിനെക്കുറിച്ച് കുറച്ച് ഹ്രസ്വമായ അഭിപ്രായങ്ങൾ പറയാം ഈ പ്രകടനം നയിക്കുന്ന പ്രശ്നങ്ങളിലേക്ക് ഞങ്ങൾ വീണ്ടും വരും അതിനാൽ സമയ വിശകലനത്തെക്കുറിച്ചും മറ്റ് അനുബന്ധ പ്രശ്നങ്ങളെക്കുറിച്ചും സംസാരിക്കുമ്പോൾ ഇപ്പോൾ ഇവിടെ പ്രശ്നം ചിപ്പ് തലത്തിലുള്ള കാലതാമസം വളരെ പ്രധാനമാണ് കൂടാതെ ക്ലോക്ക് ആവൃത്തി നിർണ്ണയിക്കാൻ കഴിയുന്ന നിർണായക പാതകൾ തിരിച്ചറിയാൻ ഇത് ഒരു പ്രധാന പങ്ക് വഹിക്കുന്നു ഇത് ചിപ്പുകളുടെ മൊത്തത്തിലുള്ള പ്രകടനം നിർണ്ണയിക്കാൻ കഴിയും ഈ കാലതാമസം പലപ്പോഴും ഇന്റർ കണക്ഷനുകൾ മൂലമാണ് മോശം വയറിംഗ് അല്ലെങ്കിൽ മോശം പ്ലേസ്മെന്റ് ചിപ്പ് തലത്തിൽ വലിയ കാലതാമസത്തിന് ഇടയാക്കും ഇപ്പോൾ ബ്ലോക്കുകൾ ചെറിയത് ആയതിനാൽ ട്രാൻസിസ്റ്ററിലെ ബ്ലോക്കുകൾ ചെറുതാകുന്നുവെന്ന് പറയാം ചിപ്പുകളും ചെറുതായിക്കൊണ്ടിരിക്കുകയാണ് അതിനാൽ ഇപ്പോൾ ഇന്റർകണക്ഷൻ കാലതാമസം ഒരു പ്രധാന പ്രശ്നമായി മാറിയിരിക്കുന്നു കാരണം ഇപ്പോൾ ഗേറ്റ് കാലതാമസവും ഇന്റർകണക്ഷൻ കാലതാമസവും താരതമ്യപ്പെടുത്താവുന്നതാണ് അതിനാൽ നേരത്തെ ഗേറ്റ് കാലതാമസം വളരെ വലുതായിരുന്നു അതിനാൽ ഇന്റർകണക്ഷൻ കാലതാമസം അവഗണിക്കാൻ നിങ്ങൾക്ക് കഴിയും പക്ഷേ നിങ്ങൾക്ക് ശരിയാക്കാൻ കഴിയില്ല അതിനാൽ ചിപ്പുകളിലെ ഉയർന്ന പെർഫോമൻസ് സർക്യൂട്ടുകൾക്കായി പ്ലെയ്സ്മെന്റ് അൽഗോരിതങ്ങൾ വലകളുടെ ഇന്റർ കണക്ഷൻ അനുവദിക്കും അവിടെ ചില സമയ പരിമിതികൾ ഉണ്ടാകാം നിങ്ങളുടെ പരമാവധി കാലതാമസം വ്യക്തമാക്കാൻ കഴിയുന്ന ചില ഡെൽറ്റ മൂല്യം കവിയാത്ത വിധത്തിൽ നിങ്ങൾ റൂട്ട് ചെയ്യുന്നുവെന്ന് എനിക്ക് പറയാൻ കഴിയും ഉപയോക്താവ് അതിനാൽ അൽഗോരിതങ്ങളെ വിശാലമായി 2 ക്ലാസുകളായി തരംതിരിക്കാം നെറ്റ് അടിസ്ഥാനത്തിൽ 1 പ്രവർത്തിക്കുന്നു അപ്പോൾ നെറ്റ് എന്താണെന്ന് ഓർക്കുക പിൻസ് ഒരു കണക്ഷനാണ് നെറ്റ് അത് ബന്ധിപ്പിക്കേണ്ടതുണ്ട് അവ ഒരേ അർത്ഥത്തിൽ തുല്യ സാധ്യതയുള്ള വലയിൽ പെടുന്നു അതിനാൽ നെറ്റ് അടിസ്ഥാനമാക്കിയുള്ള സമീപനത്തിൽ നെറ്റ് അടിസ്ഥാനത്തിൽ ഒരു നെറ്റ് വഴി വ്യക്തിഗതമായി സമയ നിയന്ത്രണങ്ങൾ പാലിക്കാൻ ഞങ്ങൾ വലകൾ റൂട്ട് ചെയ്യാൻ ശ്രമിക്കുന്നു ഞങ്ങൾ പാതകൾ പരിഗണിക്കുന്നില്ല അതിനാൽ അൽഗോരിതങ്ങളെ വിശാലമായി 2 ക്ലാസുകളായി തരംതിരിക്കാം നെറ്റ് അടിസ്ഥാനത്തിൽ 1 പ്രവർത്തിക്കുന്നു അപ്പോൾ നെറ്റ് എന്താണെന്ന് ഓർക്കുക പിൻസ് ഒരു കണക്ഷനാണ് നെറ്റ് അത് ബന്ധിപ്പിക്കേണ്ടതുണ്ട് അവ ഒരേ അർത്ഥത്തിൽ തുല്യ സാധ്യതയുള്ള നെറ്റിൽ പെടുന്നു അതിനാൽ നെറ്റ് അടിസ്ഥാനമാക്കിയുള്ള സമീപനത്തിൽ നെറ്റ് അടിസ്ഥാനത്തിൽ ഒരു നെറ്റ് വഴി വ്യക്തിഗതമായി സമയ നിയന്ത്രണങ്ങൾ പാലിക്കാൻ ഞങ്ങൾ നെറ്റുകൾ റൂട്ട് ചെയ്യാൻ ശ്രമിക്കുന്നു പാതകൾ പരിഗണിക്കുന്നില്ല ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് പോലെ എനിക്ക് ഒരു സാഹചര്യം ഉണ്ടാകാം എന്ന് പറയട്ടെ അവിടെ ഗേറ്റുകളുടെ തലത്തിലുള്ള ഒരു ചെറിയ സർക്യൂട്ട് നമുക്ക് പരിഗണിക്കാം നമുക്ക് ഇത് എടുക്കാം അതിനാൽ ഇവിടെ നിങ്ങൾ ഇത് നോക്കുകയാണെങ്കിൽ ഈ സെറ്റ് വയറുകൾ 1 2 3 4 ആണ് അവർ ഒരു നെറ്റ് ഉണ്ടാക്കുന്നു കാരണം ഈ പിൻ ഇവിടെയും ഈ പിൻ ഇവിടെയും ഈ പിൻ ഇവിടെയും ഈ പിൻ ഇവിടെയും തുല്യ സാധ്യതയാണ് അതിനാൽ ഞങ്ങൾ ഈ നെറ്റ് വ്യക്തിഗതമായി പരിഗണിക്കുന്നു ഈ നെറ്റിന്റെ കാലതാമസം കുറയ്ക്കാൻ ഞങ്ങൾ ശ്രമിക്കുന്നു ഈ NAND ഗേറ്റിന്റെ ഔട്ട്പുട്ട് മുതൽ ഈ NAND ഗേറ്റുകളുടെ ഇൻപുട്ട് വരെയുള്ള പരമാവധി കാലതാമസം ഈ കാലതാമസം കുറയ്ക്കാൻ ഞങ്ങൾ ശ്രമിക്കുന്നു പക്ഷേ എന്റെ ഇൻപുട്ട് മുതൽ ഫൈനൽ ഔട്ട്പുട്ട് വരെയുള്ള പാത്ത് ഞങ്ങൾ പരിഗണിക്കുന്നില്ല അത് മൊത്തം കാലതാമസമാണ് ഞാൻ അത് പൂർണ്ണമായും പരിഗണിക്കുന്നില്ല നെറ്റ് അടിസ്ഥാനത്തിൽ ഞാൻ അത് നെറ്റ് നോക്കുന്നു അതുപോലെ ഇവിടെ ഞാൻ വീണ്ടും ഇവിടെ പോകുകയാണെങ്കിൽ അതിനാൽ എനിക്ക് ഇവിടെ മറ്റൊരുനെറ്റ് ഉണ്ടാകും ഇവിടെ മറ്റൊരു നെറ്റ് ഉണ്ടാകും അതിനാൽ ഇതിന്റെ കാലതാമസം കുറയ്ക്കാൻ ഞാൻ ശ്രമിക്കും നെറ്റ് അടിസ്ഥാനത്തിൽ ഞങ്ങൾ മുന്നോട്ട് പോകും അതിനാൽ ഓരോ നെറ്റിന്റേയും സമയ ആവശ്യകത തീരുമാനിക്കേണ്ടതുണ്ട് സാധാരണയായി ചില സമയ വിശകലന ഉപകരണം ലഭ്യമാണ് അത് നെറ്റ് ദൈർഘ്യത്തിൽ അതിരുകൾ സൃഷ്ടിക്കുന്നു അത് പ്ലേസ്മെന്റ് സമയത്ത് തൃപ്തിപ്പെടണം ഉദാഹരണത്തിന് സർക്യൂട്ട് ആവശ്യമാണെന്ന് എനിക്ക് പറയാം ചില പ്രത്യേക ക്ലോക്ക് ആവൃത്തിയിൽ പ്രവർത്തിക്കാൻ അതിനാൽ ഒരു വിശകലനം നടത്താം ഈ പ്രത്യേക ക്ലോക്കിൽ സർക്യൂട്ട് പ്രവർത്തിക്കാൻ പരമാവധി നെറ്റ് ദൈർഘ്യം ഒരിക്കലും കവിയാൻ കഴിയില്ലെന്ന് നിങ്ങൾക്ക് പ്രവചിക്കാൻ കഴിയും ഇത് കവിഞ്ഞാൽ ഈ ആവശ്യം നിറവേറ്റാൻ ബുദ്ധിമുട്ടായേക്കാം അതിനാൽ ഇത്തരത്തിലുള്ള ഒരു നിയന്ത്രണം അവിടെ ഉണ്ടാകാം മറ്റൊരു സമീപനം ഇൻപുട്ടിൽ നിന്ന് ഔട്ട്പുട്ട് നിർണായക പാതകളിലേക്കുള്ള വഴികൾ നിങ്ങൾ പരിഗണിച്ചേക്കാം നിങ്ങൾ പാതകളിലെ മൊത്തം കാലതാമസം നോക്കി നിർണായക പാതകൾ ചില ക്ലോക്ക് ടൈമിംഗ് നിയന്ത്രണങ്ങൾ ലംഘിക്കുന്നുണ്ടോ ഇല്ലയോ എന്ന് നോക്കുക പാതയുടെ ദൈർഘ്യം പ്രത്യേകിച്ച് നിർണായക പാതകൾ സമയ പരിമിതി ലംഘിക്കാത്ത വിധത്തിൽ ബ്ലോക്കുകൾ സ്ഥാപിക്കാൻ നിങ്ങൾ ശ്രമിക്കുന്നു തുടക്കത്തിൽ നിർണായകമാകാത്ത ചില പാതകൾ മാത്രമല്ല നിങ്ങൾ അവ സ്ഥാപിച്ചതിനുശേഷം മറ്റേതെങ്കിലും പാത ഇപ്പോൾ നിർണായകമായി മാറിയിരിക്കാം കാലതാമസം വർദ്ധിക്കുന്ന പാതകളുടെ അത്തരം വിമർശനം സമയ പരിമിതിയെ പ്രതികൂലമായി ബാധിക്കരുത് അവ എല്ലായ്പ്പോഴും നെറ്റ് ആയിരിക്കണം ഇപ്പോൾ ഈ സ്റ്റാറ്റിക്ക് ടൈമിംഗ് വിശകലനത്തെക്കുറിച്ചും അതുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളെക്കുറിച്ചും ചർച്ച ചെയ്യുമ്പോൾ ഞങ്ങൾ ഈ കാര്യങ്ങൾ പിന്നീട് നോക്കും അതിനാൽ ഇത് ഉപയോഗിച്ച് ഞങ്ങൾ വിവിധ പ്ലേസ്മെന്റ് അൽഗോരിതങ്ങൾ പരിശോധിച്ചു ഇപ്പോൾ ഈ ആഴ്ചയിൽ ഞങ്ങൾ ഫിസിക്കൽ ഡിസൈനിന്റെ പ്രാരംഭ പ്രശ്നങ്ങൾ വിഭജനം ഫ്ലോർ പ്ലാനിംഗ് പ്ലെയ്സ്മെന്റ്placement എന്നിവ പരിശോധിച്ചു അതിനാൽ ഞങ്ങൾ ഈ പ്രഭാഷണത്തിന്റെ അവസാനത്തിലേക്ക് വരുന്നു അതിനാൽ അടുത്ത പ്രഭാഷണത്തിൽ റൂട്ടിംഗിനെക്കുറിച്ചുള്ള ചർച്ചകൾ ആരംഭിക്കും